കീവേഡുകൾ കർമ്മ ഖുശ്വന്ത് സിംഗ് കഥാപാത്രം പ്ലോട്ടിംഗ് ആഖ്യാന വീക്ഷണം ഹലോ ഖുസ്വന്ത് സിംഗിന്റെ കർമ എന്ന ചെറുകഥയെക്കുറിച്ചുള്ള ഈ ലെക്ച്ചറിലേക്ക് സ്വാഗതം ഞാൻ ഈ പ്രഭാഷണത്തിന് ഖുസ്വന്ത് സിങ്ങിന്റെ കർമ്മയിലെ വീഴ്ചയുടെ പ്ലോട്ടിംഗ് എന്ന് പേരിട്ടിരിക്കുന്നു അതിനാൽ വീഴ്ച എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നോക്കാം ഇപ്പോൾ ഖുസ്വന്ത് സിംഗ് എന്ന ഈ മഹാനായ മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്തട്ടെ എഴുത്തുകാരനും പത്രപ്രവർത്തകനും നയതന്ത്രജ്ഞനുമായിരുന്നു ഖുസ്വന്ത് സിംഗ് 1915 ൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിൽ ജനിച്ച അദ്ദേഹം 2014 ൽ സ്വതന്ത്ര ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ മരിച്ചു 1956 ൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന നോവലിലൂടെയാണ് അദ്ദേഹം ഏറെ പ്രശസ്തനായത് 1947 ലെ ഇന്ത്യാ വിഭജനത്തെക്കുറിച്ചുള്ള നോവലാണിത് അദ്ദേഹം നിരവധി ഉപന്യാസങ്ങളും എഴുതിയിട്ടുണ്ട് അവയിൽ ചിലത് നോട്ട് എ നൈസ് മാൻ ടു നോ എന്ന സമാഹാരത്തിൽ ശേഖരിച്ചിട്ടുണ്ട് ഇത് 1998 ൽ പ്രസിദ്ധീകരിച്ചു കൂടാതെ നിരവധി ചെറുകഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥാ സമാഹാരം ദി മാർക്ക് ഓഫ് വിഷ്ണു ആൻഡ് അദർ സ്റ്റോറീസ് എന്ന പേരിൽ 1950 ൽ പ്രസിദ്ധീകരിച്ചു അദ്ദേഹത്തിന്റെ ആത്മകഥ ട്രൂത്ത് ലൌ ആൻഡ് എ ലിറ്റിൽ മാലിസ് Truth Love and a Little Malice എന്ന പേരിൽ 2002 ൽ പ്രസിദ്ധീകരിച്ചു മൂർച്ചയുള്ള വിവേകത്തിനും വരണ്ട നർമ്മബോധത്തിനും അദ്ദേഹം പ്രശസ്തനാണ് ഖുസ്വന്ത് സിങ്ങിനെക്കുറിച്ചുള്ള രസകരമായ കുറച്ച് വിവരണങ്ങൾ എന്റെ പക്കലുണ്ട് കർമയിലെ സർ മോഹൻലാൽ എന്ന കേന്ദ്രകഥാപാത്രവുമായി അവയ്ക്ക് അനുരണനം ഉള്ളതിനാലാണ് ഞാൻ ഈ വിവരങ്ങൾ ശേഖരിച്ചത് ഇവയാണ് വിശദാംശങ്ങൾ ഖുസ്വന്ത് സിംഗ് ഇംഗ്ലണ്ടിലാണ് പഠിച്ചത് കർമ്മയിലെ സർ മോഹൻ ലാൽ ആയിരുന്നതുപോലെ ഖുസ്വന്ത് സിംഗും ഹ്രസ്വമായി അഭിഭാഷകനായി പരിശീലിക്കുന്നു കർമ്മയുടെ കഥ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ സർ മോഹൻ ലാലും ഒരു ബാരിസ്റ്ററായിരുന്നു 'കർമ'യിലെ സർ മോഹൻലാലിനെപ്പോലെ ഖുസ്വന്ത് സിംഗ് ക്രോസ്വേഡ് പസിലിൽ ഒരു പ്രിയനായിരുന്നു ഇനി നമുക്ക് 'കർമ' എന്ന കഥാലോകത്തേക്ക് കടക്കാം 'കർമ' സർ മോഹൻലാൽ എന്ന മനുഷ്യനെക്കുറിച്ചാണ് അവൻ ഒരു ആംഗ്ലീഷ് ഇന്ത്യക്കാരനാണ് അവൻ ഒരു വിസിയർ ആണെന്നും ബാരിസ്റ്ററാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളോട് പറയുന്നു കഥ ആരംഭിക്കുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ സർ മോഹൻലാൽ ഫസ്റ്റ് ക്ലാസ് വെയിറ്റിംഗ് റൂമിൽ അദ്ദേഹം ട്രെയിനിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഈ സ്റ്റേഷൻ ബ്രിട്ടീഷ് സൈനികരുടെ സൈനിക താവളമായ ഒരു കന്റോൺമെന്റിലാണ് കഥയെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് അതിനാൽ ഇന്ത്യ ഇതുവരെ സ്വതന്ത്രമായിട്ടില്ല അന്ന് നമ്മൾക്ക് രാജ്യത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഗണ്യമായ സാന്നിധ്യമുണ്ട് ഇപ്പോൾ സർ മോഹൻലാൽ വളരെ അഭിമാനിക്കുന്ന ആളാണ് അദ്ദേഹം അഭിമാനിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തന്റെ ഇംഗ്ലീഷ് ഭാഷയിലും ഉച്ചാരണത്തിലും അദ്ദേഹം അഭിമാനിക്കുന്നു അവൻ തന്റെ സ്യൂട്ട് താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്നിവയിൽ അഭിമാനിക്കുന്നു കൂടാതെ തന്റെ വിദ്യാഭ്യാസം ഓക്സ്ഫോർഡ് വിദ്യാഭ്യാസം ലണ്ടനിലെ ഇൻസ് ഓഫ് ടെമ്പിളിലെ വിദ്യാഭ്യാസം എന്നിവയിലും അദ്ദേഹം അഭിമാനിക്കുന്നു അദ്ദേഹത്തെ ബാറിലേക്ക് വിളിച്ചു ഒരു ഇംഗ്ലീഷുകാരനെപ്പോലെ തനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്ന മറ്റൊരു വസ്തുതയിൽ അദ്ദേഹം അഭിമാനിക്കുന്നു താൻ ഇരിക്കാൻ പോകുന്ന ഒന്നാം ക്ലാസ് കമ്പാർട്ടുമെന്റിലെ അത്തരം സംഭാഷണങ്ങൾക്കായി അവൻ കാത്തിരിക്കുകയാണ് സർ മോഹൻലാൽ ഭാര്യ ലച്മിയോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത് അവൾ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ടുമെന്റിന് പുറത്ത് കാത്തിരിക്കുന്നു അവൾ തന്റെ ഭർത്താവിനെപ്പോലെ ഒരു വെയിറ്റിംഗ് റൂം ഉപയോഗിക്കുന്നില്ല അവൾ വളരെ തടിയുള്ളവളാണെന്ന് വിശേഷിപ്പിക്കുന്നു മാത്രമല്ല അവളെ ഒരു നാട്ടുകാരിയാണെന്ന് അവൾ തന്നെ വിശേഷിപ്പിക്കുന്നു ഒരു സ്വദേശി സ്ത്രീ മാത്രം അത് വളരെ രസകരമാണ് അവൾ ആ വസ്തുതയെക്കുറിച്ച് വളരെ സ്വയം ബോധമുള്ളവളാണ് മാത്രമല്ല ആ വിഭാഗം അഭിമാനിക്കേണ്ട കാര്യമല്ലെന്ന് അവൾ കരുതുന്നു ഞാൻ ഒരു സ്വദേശി സ്ത്രീ മാത്രമാണെന്നും എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ലെന്നും അതിനാൽ ഞാൻ എന്റെ ഭർത്താവിനൊപ്പം ഒന്നാം ക്ലാസ് കമ്പാർട്ടുമെന്റിൽ യാത്ര ചെയ്യാൻ പോകുന്നില്ലെന്നും അവൾ പറയുന്നു ഒന്നാം ക്ലാസ് വെയിറ്റിംഗ് റൂമിന് പുറത്ത് തന്നോട് സംസാരിക്കുന്ന കൂലിയോട് അവൾ പറയുന്നത് അതാണ് അതിനാൽ അവൾ ഭർത്താവിനൊപ്പമല്ല സെനാന ഇന്റർക്ലാസിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത് സെനാന ഇന്റർക്ലാസിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കുറച്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും അതിനാൽ കഥയുടെ ത്രെഡുകൾ എടുക്കാൻ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നു സർ മോഹൻലാൽ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ടുമെന്റിൽ കയറുന്നു കമ്പാർട്ട്മെന്റ് ശൂന്യമായത് കണ്ട് അദ്ദേഹം അൽപ്പം നിരാശനായി ഇംഗ്ലീഷ് മാന്യന്മാരുമായി കുറച്ച് ആത്മാർത്ഥമായ സംഭാഷണത്തിനായി അദ്ദേഹം കാത്തിരിക്കുകയാണ് അങ്ങനെ അവൻ ആ അവസരത്തിൽ ചെറുതായി ചതിക്കപ്പെട്ടു പിന്നെ അവൻ തന്നെത്തന്നെ ഇരുന്നു തുടർന്ന് അവൻ വഴിയിൽ പലതവണ വായിച്ച തന്റെ ടൈംസ് പത്രം പുറത്തെടുത്തു അവൻ കാത്തിരിക്കുന്നു എന്നിട്ട് സംഭവിക്കുന്നത് മദ്യപിച്ച് ലക്കുകെട്ട രണ്ട് ഇംഗ്ലീഷ് പട്ടാളക്കാർ കമ്പാർട്ടുമെന്റിലേക്ക് നോക്കുകയും അവർ അതിൽ കയറുകയും ചെയ്യുന്നു സൈദ്ധാന്തികമായി പറഞ്ഞാൽ അവരെ ഒന്നാം ക്ലാസ് കമ്പാർട്ടുമെന്റിൽ അനുവദിക്കില്ല അവർ വെറും സാധാരണ ഇംഗ്ലീഷ് പട്ടാളക്കാരാണ് പക്ഷേ ആരെങ്കിലും അവരുടെ സാന്നിദ്ധ്യം ചോദ്യം ചെയ്താൽ അവർക്കുവേണ്ടി ഇടപെടാനും മധ്യസ്ഥത വഹിക്കാനും കഴിയുമെന്ന് സർ മോഹൻലാൽ കരുതുന്നു അതിനാൽ ഈ ഇംഗ്ലീഷ് പട്ടാളക്കാരോട് വളരെ നല്ലവനും മാന്യനുമായി പെരുമാറാൻ അവൻ പദ്ധതിയിടുന്നു എന്നാൽ ഈ രണ്ട് പട്ടാളക്കാരും മദ്യപിച്ചിരിക്കുന്നു അവർ മോഹൻനെ നോക്കി അവൻ ഒരു സാധാരണ നാട്ടുകാരനാണെന്ന് അവർ കരുതുന്നു അവനെ ഒന്നാം ക്ലാസ് കമ്പാർട്ടുമെന്റിൽ നിന്ന് പുറത്താക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ അവനോട് ചോദിക്കുന്നു പക്ഷേ സർ മോഹൻലാൽ നിരസിക്കുന്നു തുടർന്ന് എതിർക്കുമ്പോൾ അവർ ശാരീരികമായി അവനെ പുറത്താക്കി സെനാന ഇന്റർക്ലാസ് കമ്പാർട്ടുമെന്റിൽ വളരെ സുഖമായി ഇരിക്കുന്ന ഭാര്യ ലച്മിയുമായി ട്രെയിൻ പുറപ്പെടുന്നു അങ്ങനെയാണ് കഥയുടെ അവസാനം ഇപ്പോൾ നമുക്ക് കഥയെ സൂക്ഷ്മമായി പരിശോധിക്കാം നമ്മൾ അതിന്റെ ഒരു വിശകലന അവലോകനവും നടത്താൻ പോകുന്നു വീഴ്ചയുടെ വശത്തെക്കുറിച്ച് എനിക്ക് വളരെ താൽപ്പര്യമുണ്ട് ഖുസ്വന്ത് സിംഗിന്റെ ഈ കഥയിൽ പ്ലോട്ടിനെ കൃത്യമായി മുന്നോട്ട് നയിക്കുന്നത് എന്താണെന്ന് കാണാൻ പോകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആഖ്യാന ഊർജം ഈ കഥയിലെ കഥാപാത്രവൽക്കരണത്തിലാണ് പ്രത്യേകിച്ച് സർ മോഹൻലാൽന്റെ കഥാപാത്രത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രം അദ്ദേഹത്തിന് മാത്രമല്ല ഒരു തരത്തിൽ കാത്തിരിക്കുന്ന വായനക്കാർക്കും ഒരു കൂട്ടം ദീർഘ ദൃഷ്ടിയും പ്രതീക്ഷകളും സൃഷ്ടിക്കുന്നു കഥയിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക കൂട്ടം സംഭവങ്ങൾ പക്ഷേ നേരെ വിപരീതമാണ് സംഭവിക്കുന്നത് ആത്യന്തികമായി ഈ അവസാനത്തിന് ഒരു ദാരുണമായ കോമിക് ക്ലോഷർ അനുഭവപ്പെടുന്നു ഇപ്പോൾ സ്വഭാവരൂപീകരണമാണ് ഈ ആഖ്യാനത്തെ വളരെ ശക്തമായും തീവ്രമായും മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ഘടനയുടെ ഈ വശം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഈ അടിസ്ഥാന ചോദ്യം ചോദിക്കാം എന്താണ് ഒരു കഥാപാത്രം ഒരു കഥാപാത്രം എന്നത് ഒരു പ്രത്യേക രൂപഭാവമുള്ള ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് ആ വ്യക്തിക്ക് ഒരു കൂട്ടം ആന്തരിക ഗുണങ്ങളുണ്ട് അത് അടിസ്ഥാനപരമായി ചുരുക്കത്തിൽ ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ സംഘടിതമായി പറഞ്ഞാൽ ഒരു കഥാപാത്രത്തിന് വൈകാരികവും ബൌദ്ധികവും ധാർമ്മികവുമായ ഒരു സൈറ്റുണ്ട് സർ മോഹൻ ലാലിന്റെ വൈകാരികവും ബൌദ്ധികവും ധാർമ്മികവുമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചെറിയ സാഹിത്യകൃതിയിൽ സാധാരണയായി ഒരു കഥാപാത്രം ഏറ്റവും പ്രമുഖമോ ഏറ്റവും പ്രബലമോ ആണ് അവന്റെ അല്ലെങ്കിൽ അവളുടെ മനോഭാവങ്ങളാണ് പ്ലോട്ടിനെ നയിക്കുന്നത് അല്ലെങ്കിൽ ഇതിവൃത്തത്തെ നയിക്കുന്നത് ചിലപ്പോൾ കഥാപാത്രം കഥാപാത്രത്തിന്റെ സ്വഭാവം അവന്റെ അല്ലെങ്കിൽ അവളുടെ പ്രേരണകൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ നിർബന്ധങ്ങൾ എന്നിവയാണ് ഇതിവൃത്തത്തെ സങ്കീർണ്ണമാക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നത് ഇത് വളരെ നിർണായകമായ ഒരു വിവരണ പ്രവർത്തനമാണ് ഒരു ഹ്രസ്വ കൃതിയിലോ ഫിക്ഷൻ സൃഷ്ടിയിലോ കേന്ദ്രകഥാപാത്രം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിലും ആഖ്യാനത്തിന്റെ പ്രമേയത്തെ സങ്കീർണ്ണമാക്കുന്നതോ സഹായിക്കാൻ കഴിയുന്നതോ ആയ ചെറിയ കഥാപാത്രങ്ങളുണ്ട് ഈ വസ്തുത നാം മനസ്സിൽ സൂക്ഷിക്കുകയും വേണം ചെറിയ കഥാപാത്രങ്ങളുടെ പ്രചോദനം എന്താണെന്നും അവർ ചെയ്യുന്ന രീതിയിൽ അവർ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്നും മനസിലാക്കാൻ ശ്രമിക്കുക ഈ ചെറിയ കണക്കുകൾ സാഹിത്യകൃതികളിൽ സുപ്രധാനമായ റോളുകളിൽ നിക്ഷേപിക്കാം ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്ലോട്ടിന്റെ പാതയിൽ ഇതിവൃത്തത്തിന്റെ വിവരണത്തിൽ അവർ ഇടപെടുന്ന രീതിയിലും അതിനെ ഒരു ദിശയിലേക്ക് തിരിയുന്ന രീതിയിലും അവയ്ക്ക് വലിയ പ്ലോട്ട് സ്വാധീനം ചെലുത്താനാകും അത് തീർത്തും പ്രതീക്ഷിക്കാത്തതും പ്ലോട്ടിനെ ഒരു പരിസമാപ്തിയിൽ എത്തിക്കുവാൻ സഹായിക്കുന്നു ഇപ്പോൾ ഖുസ്വന്ത് സിങ്ങിന്റെ മഹത്തായ ചെറുകഥയെക്കുറിച്ചുള്ള സിദ്ധാന്തം നാം ഓർക്കുകയാണെങ്കിൽ ചെറുകഥ എന്നത് ഒരു കഥാപാത്രത്തെ കുറിച്ചും മറ്റ് കഥാപാത്രങ്ങളുമായുള്ള ആ കഥാപാത്രത്തിന്റെ ബന്ധത്തെ കുറിച്ചും ആയിരിക്കാമെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു അതിനാൽ രണ്ട് വ്യത്യസ്ത തരം കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഇടപെടൽ ഇതിവൃത്തത്തിൽ സ്വാധീനം ചെലുത്തും അവരുടെ മനോഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും അടിസ്ഥാനത്തിൽ രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യം പ്ലോട്ടിനെ മുന്നോട്ട് നയിക്കുന്നു ഈ ആഴ്ചയിലെ ചെറുകഥയായ 'കർമ'യുടെ കാര്യത്തിൽ അങ്ങനെയാണോ എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഇനി ആരാണ് കഥയിലെ കേന്ദ്ര കഥാപാത്രം അത് ഏറ്റവും വ്യക്തം സർ മോഹൻലാൽ ആണ് എന്താണ് പ്രത്യേക നിഗമനത്തിലെത്തുന്നത് സർ മോഹൻലാൽ ആണ് കഥയുടെ ഫോക്കസ് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാം അദ്ദേഹം നമുക്ക് പ്രധാനമാണോ അതെ അവൻ നമുക്ക് പ്രധാനമാണ് കാരണം അവന്റെ ചിന്താ പ്രക്രിയയിലേക്ക് നമുക്ക് ഒരു ജാലകം ലഭിക്കുന്നു അത് എങ്ങനെ ലഭിക്കും സർ മോഹൻലാൽനോട് ഏറ്റവും താൽപ്പര്യമുള്ള മൂന്നാമത്തെ ആഖ്യാതാവിന്റെ ആഖ്യാനത്തിലൂടെ നമുക്ക് അത് ലഭിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ബോധത്തിന്റെ ഒരു ചിത്രം ലഭിക്കുന്നു ബോധത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ പ്രത്യേക കഥയിൽ മറ്റ് കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് സർ മോഹൻലാൽന്റെ അവബോധം കാണാം ലച്മിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നു സർ മോഹൻലാൽനെ സേവിക്കുന്ന വേലക്കാരുടെ പരിചാരകരുടെ വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നാൽ മോഹൻലാൽ സാറിനൊപ്പം ലഭിക്കുന്നത് പോലെ മറ്റ് കഥാപാത്രങ്ങളുടെ ബോധത്തെക്കുറിച്ചോ പ്രചോദനത്തെക്കുറിച്ചോ വിശദമായ വിവരണം നമുക്ക് ലഭിക്കുന്നില്ല ഇപ്പോൾ പ്രധാന കഥാപാത്രത്തിന്റെ ബാഹ്യ രൂപം എന്താണ് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു പ്രത്യേക കഥാപാത്രത്തിന്റെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സാധാരണയായി ആരംഭിച്ച ഒരു ചോദ്യമാണ് അതിനാൽ നമുക്ക് ബാഹ്യ രൂപത്തിൽ നിന്ന് ആരംഭിക്കാം തുടർന്ന് ഈ കഥാപാത്രത്തിന്റെ ബാഹ്യ രൂപവും ആന്തരിക മനസ്സും തമ്മിലുള്ള തീമാറ്റിക് കണക്ഷനുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം കാരണം ഇവ രണ്ടിനും സാധാരണയായി ചില ബന്ധങ്ങളുണ്ട് ഇപ്പോൾ കഥയിൽ നിന്നുള്ള ഈ ഉദ്ധരണി സർ മോഹൻ ലാലിന്റെ ശാരീരിക രൂപത്തെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ നമ്മോട് പറയുന്നു സാർ മോഹൻലാൽ എന്നത് വളരെ രസകരമായ ഒരു പേരാണ് കാരണം സർ എന്ന വാക്ക് നമ്മോട് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിനുള്ള അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് നൈറ്റ് പദവി ലഭിച്ചു എന്നാണ് അതിനാൽ ബ്രിട്ടീഷ് ഭരണത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതികളിലൊന്നായ ഏറ്റവും ഉയർന്ന ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചു അതുകൊണ്ടാണ് സർ എന്ന വാക്കിന്റെ ആവർത്തനം വളരെ രസകരമാകുന്നത് കാരണം ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് നേടിയെടുത്ത അധികാരം ആഖ്യാനത്തിൽ സർ മോഹൻ എന്ന വാക്ക് ആവർത്തിക്കുമ്പോൾ ശക്തിപ്പെടുത്തുന്നു അപ്പോൾ അവൻ എങ്ങനെ കാണപ്പെടുന്നു ഈ ഉദ്ധരണി നമ്മെ സഹായിക്കുന്നു നിങ്ങൾ കുഴപ്പമില്ലാത്ത ഒരാളാണ് അത് പറഞ്ഞു 'വിശിഷ്ടൻ കാര്യക്ഷമത സുന്ദരൻ വൃത്തിയായി ഒതുക്കിയ മീശ ബട്ടൺഹോളിൽ കാർനേഷൻ പൂശിയ സാവില്ലെ റോയിൽ നിന്നുള്ള സ്യൂട്ട് ഓ ഡി കൊളോണിന്റെയും ടാൽക്കം പൌഡറിന്റെയും പരിമളം സോപ്പിന്റെ സുഗന്ധവും " അപ്പോൾ ഇത് ആരാണ് കഥ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ് പക്ഷേ നിങ്ങൾ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നാം ക്ലാസ് കമ്പാർട്ടുമെന്റിലെ വെയിറ്റിംഗ് റൂമിലെ കണ്ണാടിയാണെന്ന് നിങ്ങൾക്കറിയാം ഈ കണ്ണാടി സർ മോഹൻലാൽ തന്നോട് സംസാരിക്കുന്നതായി സങ്കൽപ്പിക്കുന്നു അതുകൊണ്ട് കണ്ണാടി പറയുന്നു കണ്ണാടി തകർന്നതാണ് പൊട്ടിയ കണ്ണാടി എങ്ങനെയെങ്കിലും രാജ്യത്തിന്റെ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നതോ പ്രതീകാത്മകമോ ആണെന്ന് സർ മോഹൻലാൽ കരുതുന്നു അത് എത്ര പൊട്ടിയതും തകർന്നതുമാണ് അതുകൊണ്ട് സർ മോഹൻലാൽന്റെ സംസാരത്തോട് കണ്ണാടി പ്രതികരിക്കുമ്പോൾ കണ്ണാടി കണ്ണാടിയുടെ അവസ്ഥയെക്കുറിച്ചു സംസാരിക്കുന്നു ഒപ്പം രാജ്യത്തിന്റെ തന്നെ വിപുലീകരണവും കണ്ണാടി പറയുന്നു കുഴപ്പമില്ലാത്ത ഒരാളാണ് നിങ്ങൾ വിശിഷ്ടനാണ് നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ കാര്യക്ഷമനാണ് വളരെ കാര്യക്ഷമതയുള്ളവരാണ് ഏതാണ്ട് സുന്ദരനാണ് നീ സുന്ദരനാണ് വൃത്തിയായി വെട്ടിയ ആ മീശ സ്യൂട്ടുകൾ നിർമ്മിക്കുന്നതിൽ പേരുകേട്ട ലണ്ടനിലെ മെയ്ഫെയറിലെ ഒരു തെരുവായ സാവില്ലെ റോയിൽ നിന്നുള്ള സ്യൂട്ട് കാർണേഷൻ ബട്ടൺഹോൾ എല്ലാം അവന്റെ രൂപത്തിനും ശരീരത്തിനും ചുറ്റുമുള്ള സുഗന്ധങ്ങൾ പോലും സർ മോഹൻലാൽ എന്ന ഈ പ്രത്യേക കഥാപാത്രത്തെക്കുറിച്ച് വളരെ രസകരമായ ചിലത് ഇവയെല്ലാം നമ്മോട് പറയുന്നുണ്ട് ഇത് എന്താണ് അതായത് അദ്ദേഹം ഒരു മാന്യനാണ് ബ്രിട്ടീഷ് അർത്ഥത്തിൽ ഒരു മാന്യനാണ് അതാണ് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാന്യൻ ഞാൻ പറഞ്ഞതുപോലെ സാവില്ലെ റോ വളരെ പ്രധാനമാണ് കാരണം ഇത് സർ മോഹൻലാൽ ഉയർന്നുവന്നുവെന്ന് നമ്മോട് പറയുന്നു ഈ സ്യൂട്ടുകൾ വാങ്ങിയ ലണ്ടനിലെ മേഫെയറിലെ സാവിൽ റോയിലേക്ക് അയാൾക്ക് പ്രവേശനമുണ്ട് ഈ പ്രത്യേക പ്രദേശം സാവില്ലെ റോ പ്രധാനമായും ബ്രിട്ടീഷ് മാന്യന്മാർ ധരിക്കുന്ന പരമ്പരാഗതവും ആധികാരികവും വ്യവസ്ഥാപിതവുമായ സ്യൂട്ടുകൾക്ക് പേരുകേട്ടതാണ് ഇപ്പോൾ എന്റെ കയ്യിൽ ചില മാന്യന്മാരുടെ ഒരു ചിത്രമുണ്ട് ഈ ചിത്രം കർമ എന്ന കഥയിൽ സർ മോഹൻലാൽ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ അവൻ വളരെ നന്നായി പക്വതയുള്ളവനാണ് കേന്ദ്രകഥാപാത്രം വളരെ നന്നായി വസ്ത്രം ധരിച്ചിരിക്കുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ ഒതുക്കിയ മീശ അവൻ വളരെ വൃത്തിയുള്ള ആളാണെന്ന് സൂചിപ്പിക്കുന്നു വീണ്ടും പൊടി ലോഷൻ ഷേവ് ചെയ്തതിന് ശേഷം ലോഷനും സുഗന്ധമുള്ള സോപ്പും ചേർന്നുള്ള സുഗന്ധം അവൻ നന്നായി ശ്രദ്ധിക്കുന്നുവെന്ന് നമ്മോട് പറയുന്നു അവന്റെ രൂപവും സമൂഹത്തിൽ അവൻ പ്രത്യക്ഷപ്പെടുന്ന രീതിയും വളരെ പ്രത്യേകമാണ് ഒരു പ്രത്യേക മതിപ്പ് ചുറ്റുമുള്ളവരിൽ ഒരു പ്രത്യേക മതിപ്പ് ഉണ്ടാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അവൻ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ഈ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട് അവൻ ഒരു ബ്രിട്ടീഷ് ഇംഗ്ലീഷ് മാന്യനെപ്പോലെയാണെന്ന് നമ്മൾക്കറിയാം ഇപ്പോൾ അവന്റെ ജീവിതനിലവാരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിർണായകമായ മറ്റ് ചോദ്യങ്ങൾ ഇവയാണ് അവന്റെ അവസ്ഥ എന്താണ് അവൻ എവിടെയാണ് താമസിക്കുന്നത് അവൻ അവിവാഹിതനാണോ അവന്റെ തൊഴിൽ എന്താണ് സമൂഹത്തിൽ അവന്റെ സ്ഥാനത്തെക്കുറിച്ച് ശരിക്കും നല്ലതും അടുത്തതുമായ ധാരണ ലഭിക്കാൻ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണിവ വ്യക്തമായും അവൻ സമ്പന്നനാണ് അവൻ ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നതിനാൽ അവൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ടാകണം കൂടാതെ അവൻ ഫസ്റ്റ് ക്ലാസ് വെയിറ്റിംഗ് റൂം ഉപയോഗിക്കുന്നു കാരണം ആ ടിക്കറ്റ് അവന് ആ പദവി നൽകുന്നു കൂടാതെ അദ്ദേഹത്തിന് ഒരു വലിയ വീടുണ്ടെന്നും അദ്ദേഹത്തിന്റെ ബംഗ്ലാവിനെക്കുറിച്ച് വളരെ നേരിട്ട് പരാമർശമുണ്ട് അത് ഒരുപക്ഷേ നിരവധി കഥകളുള്ള ഒരു വലിയ ബംഗ്ലാവാണ് ഈ കഥയുടെ ഒരു ഘട്ടത്തിൽ അവൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്ന് അവന്റെ ഭാര്യയിലൂടെ നാം മനസ്സിലാക്കുന്നു അവൾ അവനെ വിസിയർ എന്ന് വിളിക്കുന്നു കൂടാതെ വിസിയർ എന്നത് സംഭാഷണ അർത്ഥത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ അർത്ഥമാക്കാം കൂടാതെ അദ്ദേഹം ഒരു ബാരിസ്റ്റർ കൂടിയാണ് അദ്ദേഹം നിയമത്തിന് പഠിച്ചിട്ടുണ്ട് അവനെ ബാറിലേക്ക് വിളിച്ചിട്ടുണ്ട് അവൻ ഇൻസ് ടെമ്പിളിൽ പഠിച്ചു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ടുമെന്റിൽ തന്റെ ഭർത്താവ് നിരവധി ഓഫീസർമാരെയും ഇംഗ്ലീഷ് മാന്യന്മാരെയും കണ്ടുമുട്ടിയ കാര്യം ഭാര്യ കൂലിയോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവൾ ആ ഇടം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാൽന്റെ ശാരീരികവും സാമൂഹികവുമായ നിലയെ ഇല്ലാതാക്കുന്ന തരത്തിൽ നിങ്ങളോട് പറയുന്ന ചില വിവരങ്ങൾ ഇവയാണ് എന്താണ് നമ്മൾ ചോദിച്ചത് നമ്മൾ ഈ ചോദ്യം ചോദിച്ചു അവന്റെ രൂപം എങ്ങനെയുള്ളതാണ് അവൻ എത്ര സമ്പന്നനാണ് ഇപ്പോൾ നമ്മൾ അവന്റെ പ്രധാന സ്വഭാവസവിശേഷതകളിലേക്ക് വരുന്നു അവ എങ്ങനെ പ്രകടമാകുന്നു അവന്റെ മുഖ്യൻ ആരാണ് സ്വഭാവവിശേഷങ്ങൾ എന്തൊക്കെയാണ് അവ എങ്ങനെയാണ് കഥയിൽ വെളിപ്പെടുന്നത് ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് അവന്റെ ഇന്റീരിയർ വർക്കുകൾ നമ്മൾ അറിയുന്നത് പിന്നെ ചോദിക്കേണ്ടതും നിരീക്ഷിക്കേണ്ടതുമായ മറ്റൊരു ചോദ്യം അവൻ മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകുന്നു എന്നതാണ് ഇത് വളരെ പ്രധാനമാണ് കാരണം ചിലപ്പോൾ ഇടപെടലുകളിലൂടെ മാത്രമേ യഥാർത്ഥ സ്വഭാവം പ്രകടമാകൂ ഒരു വ്യക്തി തനിച്ചായിരിക്കുമ്പോൾ ആ വ്യക്തിത്വത്തിന് മറ്റൊരു വ്യക്തിയുമായി ഒരു പരസ്പര കൈമാറ്റമോ ഇടകലരലോ ഇല്ലെങ്കിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ വ്യക്തിത്വം പ്രവർത്തനസ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയില്ല ഇപ്പോൾ സർ മോഹൻലാൽന്റെ കഥാപാത്രത്തിന്റെ ചില പ്രകടനങ്ങൾ ഈ ചില സവിശേഷതകളിലൂടെ കാണാൻ കഴിയും സ്വയം പരിപാലിച്ച രീതിയിലൂടെ അവൻ വളരെ നന്നായി വളർത്തപ്പെട്ടവനാണെന്ന് നമുക്ക് കാണാൻ കഴിയും അത് വളരെ വ്യക്തവും സുസ്ഥിരവുമാണ് വളരെ രസകരമായ മറ്റൊരു കാര്യം അവൻ ആവേശവും തിരക്കും തിടുക്കവും വെറുക്കുന്നു എന്നതാണ് ഈ വാക്കുകൾ വളരെ രസകരമാണ് കാരണം ഇന്ത്യ ആവേശത്തിന്റെയും തിരക്കിന്റെയും ഒച്ചപ്പാടിന്റെയും ഇടമാണെന്ന പൊതുബോധം അവിടെയുണ്ട് മിക്കവാറും ചിലപ്പോൾ ഇന്ത്യയുടെ ഒരു സ്റ്റീരിയോടൈപ്പ് ആയ ഈ സ്വഭാവസവിശേഷതകൾ ഇതിൽ ലച്മി പങ്കെടുക്കുന്നു അയാൾക്ക് വളരെ പഠനവിധേയമായ ചലനമുണ്ട് കൂടാതെ എല്ലാം ടിക്കറ്റി ബൂ ആകണമെന്നും ടിക്കറ്റി ബൂ എന്നാൽ നല്ല ക്രമത്തിലായിരിക്കണമെന്ന് എല്ലാം നല്ല ക്രമത്തിലായിരിക്കണമെന്നും അല്ലെങ്കിൽ എല്ലാം നന്നായിരിക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നു ടിക്കറ്റി ബൂ എന്നത് അനൌപചാരികവും ഇപ്പോൾ കാലഹരണപ്പെട്ടതുമായ ഒരു വാക്യമാണ് ഇത് വളരെ ഇംഗ്ലീഷ് ആയ പദസമുച്ചയമാണ് യഥാർത്ഥത്തിൽ മൂന്നാമൻ ആഖ്യാതാവ് ആ പദപ്രയോഗം ഉപയോഗിക്കുന്നത് തന്റെ കേന്ദ്രകഥാപാത്രമായ മോഹൻലാൽ ഇഷ്ടപ്പെടുന്നതോ പലപ്പോഴും ഉപയോഗിക്കുന്നതോ ആയ വാക്കുകളുടെ അർത്ഥം നമുക്ക് നൽകാനാണ് അതിനാൽ തന്റെ പ്രവചനങ്ങൾ എന്താണെന്ന് ആഖ്യാതാവ് ചുരുക്കത്തിൽ നമ്മോട് പറയുന്നു സർ മോഹൻ ലാലിന് തന്റെ അഞ്ച് വർഷത്തെ വിദേശ ജീവിതത്തിനിടയിൽ ഉയർന്ന വിഭാഗങ്ങളുടെ പെരുമാറ്റവും മനോഭാവവും ഉണ്ടായിരുന്നുവെന്ന് ആഖ്യാനത്തിൽ പറയുന്നു അദ്ദേഹം ഹിന്ദുസ്ഥാനി വളരെ അപൂർവമായി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ അങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഒരു ഇംഗ്ലീഷുകാരന്റെ പോലെയായിരുന്നു വളരെ ആവശ്യമുള്ള വാക്കുകൾ മാത്രം അപ്പോൾ ഈ ഉദ്ധരണിയിൽ നിന്ന് നമുക്ക് ധാരാളം വിവരങ്ങൾ ലഭിക്കുന്നു അതായത് 5 വർഷം വിദേശത്ത് ചെലവഴിച്ചു 5 വർഷം മാത്രം അവൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉയർന്ന വിഭാഗങ്ങളുടെ മര്യാദകൾ സ്വീകരിച്ചു അത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് തിരികെ വരുമ്പോഴോ അവസരം ലഭിക്കുമ്പോഴോ ഹിന്ദുസ്ഥാനി അത്യന്താപേക്ഷിതമായപ്പോൾ മാത്രം സംസാരിക്കും എന്നിട്ടും ഒരു ഇംഗ്ലീഷുകാരൻ ഭാഷ സംസാരിക്കുന്നതുപോലെ സംസാരിക്കും അവശ്യ ഉള്ളടക്ക പദങ്ങൾ മാത്രം ആംഗലേയമാക്കുന്ന വിധത്തിൽ ഉച്ചരിക്കുന്നു അതിനാൽ അദ്ദേഹം ഉന്നതവർഗത്തിന്റെ പെരുമാറ്റം സ്വീകരിക്കുന്നു എന്നത് വളരെ രസകരമാണ് അത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം കൊണ്ടായിരിക്കാം അദ്ദേഹം ഓക്സ്ഫോർഡിൽ പോയി ബാറിൽ പോയി ബ്രിട്ടീഷ് ഉന്നത സമൂഹം സാധാരണയായി സന്ദർശിക്കുന്ന സ്ഥലങ്ങളാണിവ ഉയർന്ന ക്ലാസുകളുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലേക്കുള്ള ഈ ജാലകം അവനെ അവന്റെ മാതൃഭാഷയിൽ നിന്ന് വേർപെടുത്തുന്നു തിരികെ വരുമ്പോൾ അവൻ തദ്ദേശീയമായ ഭൂപ്രകൃതിയുമായോ പ്രാദേശിക സംസ്കാരവുമായോ ബന്ധപ്പെടുന്നില്ല ആ ഇടവേള അവൻ ഉപയോഗിക്കുന്ന വാക്കുകളിലും ശൈലികളിലും സൂചിപ്പിക്കുന്നു അയാൾ മുഴുവൻ വാക്യങ്ങളും ഉപയോഗിക്കുന്നില്ല എന്നത് വളരെ രസകരമാണ് അവിടെയും ഇവിടെയും വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്നു മോഹൻലാൽ തന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ വളരെ അഭിമാനിക്കുന്നു അത് പ്രധാനമായും ഓക്സ്ഫോർഡിലെ തന്റെ വിദ്യാഭ്യാസത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ് അദ്ദേഹം ആംഗ്ലീഷ് ചെയ്ത ഹിന്ദുസ്ഥാനി ഉപയോഗിക്കുന്നുവെന്ന വസ്തുത നാം വീണ്ടും ഓർക്കേണ്ടതുണ്ട് കാരണം ഇത് അദ്ദേഹത്തിന്റെ മനസ്സിനെ മനസ്സിലാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് സേവകരോട് മാത്രമല്ല ഭാര്യ ലച്മിയോടും സംസാരിക്കാൻ അദ്ദേഹം ആംഗ്ലീഷ് ചെയ്ത ഹിന്ദുസ്ഥാനി ഉപയോഗിക്കുന്നു അതൊരു അസ്വസ്ഥതയുളവാക്കുന്ന വസ്തുതയാണ് അത് ശ്രദ്ധിക്കേണ്ടതും ഓർമ്മിക്കേണ്ടതുമാണ് ഞാൻ നിങ്ങൾക്കായി ഇവിടെ വായിക്കാൻ തിരഞ്ഞെടുത്തത് ഒഴികെ ഇതിലൂടെ ഇംഗ്ലണ്ടിനെയും ഇന്ത്യയെയും ഈ രണ്ട് രാജ്യങ്ങളെയും അദ്ദേഹം എങ്ങനെ കാണുന്നു എന്നതിന്റെ മറ്റൊരു ജാലകം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നു ആഖ്യാതാവ് പറയുന്നു "തിരക്കേറിയ മഹത്തായ ജീവിതത്തിന്റെ അഞ്ച് വർഷം വൃത്തികെട്ട അശ്ലീലമായ നാട്ടുകാരും വിജയത്തിലേക്കുള്ള വഴിയുടെ വൃത്തികെട്ട വിശദാംശങ്ങളും മുകളിലത്തെ നിലയിലേക്കുള്ള രാത്രി സന്ദർശനങ്ങളും വിയർപ്പിന്റെയും പച്ച ഉള്ളിയുടെയും മണമുള്ള തടിച്ച പ്രായമായ ലച്മിയുമായി വളരെ ഹ്രസ്വമായ ലൈംഗിക ബന്ധങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ നാൽപ്പത്തിയഞ്ചു വർഷങ്ങളെക്കാൾ വിലമതിക്കുന്ന " അതിനാൽ ഈ രണ്ട് രാജ്യങ്ങളിലെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ താരതമ്യ വിലയിരുത്തൽ ഇവിടെയുണ്ട് ഈ രണ്ട് രാജ്യങ്ങളിലും ചെലവഴിച്ച തന്റെ ജീവിത കാലയളവിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ അസമത്വം ഉണ്ടായിരുന്നിട്ടും താൻ ഏറ്റവും കുറച്ച് സമയം ചെലവഴിച്ച രാജ്യത്തെ അദ്ദേഹം ശരിക്കും അഭിനന്ദിക്കുന്നു അതിനാൽ സർ മോഹൻലാൽന്റെ ജന്മനാടിനോടും അദ്ദേഹം സന്ദർശിച്ച വിദേശ രാജ്യത്തോടുമുള്ള മനോഭാവത്തിലേക്കുള്ള വളരെ രസകരമായ ഒരു ജാലകം ഇത് നിങ്ങൾക്ക് വീണ്ടും നൽകുന്നു അതിനാൽ ചില ഗ്രൂപ്പുകൾ ഒരുമിച്ച് ചേർക്കപ്പെട്ട ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട് നമുക്ക് ഉദ്ധരണികളിലേക്ക് മടങ്ങാം വൃത്തികെട്ട അശ്ലീലമായ രാജ്യക്കാരിലേക്ക് ഈ കഥയിലെ വൃത്തികെട്ട വൃത്തികെട്ട നാട്ടുകാരെയാണ് നമ്മൾ തിരയുന്നതെങ്കിൽ അവർ സേവകരിലും ഭാര്യ ലച്മിയിലും പ്രതിനിധീകരിക്കുന്നു ഈ കഥയിൽ അദ്ദേഹം പറയുന്ന ദേശവാസികളെക്കുറിച്ചുള്ള മറ്റ് പരാമർശങ്ങളൊന്നും നമ്മൾക്ക് ലഭിക്കുന്നില്ല അതിനാൽ ഇവയാണ് പ്രതിനിധികൾ തുടർന്ന് വിപരീതമായും പ്രത്യക്ഷമായും ഇംഗ്ലണ്ട് പ്രാകൃതമാണെന്നും അത് ശുദ്ധമാണെന്നും കറയറ്റതാണെന്നും എല്ലാം നല്ലതും ന്യായമാണെന്നും ഉള്ള ധാരണയുണ്ട് ലാൻഡ്സ്കേപ്പിനെക്കുറിച്ച് ഇംഗ്ലണ്ടിന്റെ മനോഹരമായ പോസിറ്റീവ് ലാൻഡ്സ്കേപ്പിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു പരാമർശം കൂടിയുണ്ട് ഓക്സ്ഫോർഡ് കോളേജുകൾ മാസ്റ്റേഴ്സ് ഡോൺസ് ട്യൂട്ടർമാർ ബോട്ട് റേസ് റഗ്ഗർ മത്സരങ്ങൾ എന്നിവയുടെ ഒരു യക്ഷിക്കഥയിലേക്ക് അത് നയിക്കുമെന്ന് ആഖ്യാതാവ് പറയുന്നു തന്നോട് സംസാരിക്കാൻ ഒരു ഇംഗ്ലീഷുകാരനെ കിട്ടിയാൽ മതി ആ സംസാരത്തിലൂടെ ഈ സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കാനും സന്ദർശിക്കാനും കഴിയുമെന്ന് സർ മോഹൻലാൽ കരുതുന്നു എന്നതാണ് ഈ ഉദ്ധരണിയുടെ സന്ദർഭം ആ നാട്ടിലേക്ക് ഓക്സ്ഫോർഡ് കോളേജുകളുടെ ഫെയറി ലാൻഡിലേക്കും എല്ലാ ആളുകളിലേക്കും ഓക്സ്ഫോർഡിന്റെ ലാൻഡ്സ്കേപ്പ് ആളുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലേക്കും അവന് തിരികെ പോകാം അതിനാൽ വിപുലീകരണത്തിലൂടെ ഇംഗ്ലണ്ടിനെ ഒരു ഫെയറി ലാൻഡ് ആയി വർണ്ണിച്ചിരിക്കുന്നു ദേശത്തെ കോളനിവൽക്കരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് ഇത് വളരെ രസകരവും വീണ്ടും അസ്വസ്ഥമാക്കുന്നതുമായ ഒരു ആശയമാണ് സർ മോഹൻലാലിനെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ രസകരമായ ഈ ആശയം നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ആ ഉദ്ധരണിയിലെ രസകരമായ മറ്റൊരു വാചകം വിജയത്തിലേക്കുള്ള വൃത്തികെട്ട വഴി എന്നതാണ് നമ്മൾ മുമ്പ് നോക്കിയതൊഴിച്ചാൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇതാണ് വിജയത്തിലേക്കുള്ള വഴിയുടെ മോശം വിശദാംശങ്ങൾ അതിനാൽ ഇന്ത്യൻ മണ്ണിൽ സർ മോഹൻലാലിന്റെ വിജയത്തിലേക്കുള്ള ഉയർച്ച ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അത്ര മാന്യമായിരിക്കില്ല എന്നാണ് ഈ വാചകം നമ്മോട് പറയുന്നത് അതിനാൽ വൃത്തികെട്ട എന്നാൽ ശരിയല്ലാത്ത അനാരോഗ്യകരമായ മോശമായ പുരോഗതിയെ കുറിച്ച് ആണ് അർത്ഥമാക്കുന്നത് പിന്നെ ജന്മദേശത്തോടുള്ള വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഈ കൂട്ടുകെട്ട് സൂചിപ്പിക്കുന്നത് ധാർമ്മിക മൂല്യങ്ങൾ ന്യായമായും നേരായും കൈകാര്യം ചെയ്യുന്ന സർ മോഹൻലാൽ അമിതമായി ഇഷ്ടം പുലർത്തുന്ന മറ്റൊരു രാജ്യം എന്നാണ് അതിനാൽ സർ മോഹൻലാലിന്റെ ഈ വിലയിരുത്തലുകൾ സൂക്ഷ്മമായി സജ്ജീകരിക്കുന്ന ഒരു വൈരുദ്ധ്യമുണ്ട് മൂന്നാം വ്യക്തി ആഖ്യാതാവിന്റെ ആഖ്യാന വീക്ഷണകോണിലൂടെ നമ്മൾ ഇത് മനസ്സിലാക്കുന്നു വീണ്ടും സർ മോഹൻലാൽ ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ ആ അഞ്ച് വർഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുതരം സന്തോഷകരമായ സ്ഥലമാണ് ഇംഗ്ലണ്ടിനെക്കുറിച്ചുള്ള വിവിധ വസ്തുക്കളിലൂടെയും പരാമർശങ്ങളിലൂടെയും അദ്ദേഹം വീണ്ടും സന്ദർശിക്കുന്നു ആ അഞ്ച് വർഷത്തെ ചാരനിറത്തിലുള്ള ബാഗുകളും ഗൌണുകളും സ്പോർട്സ് ബ്ലേസറുകളും മിക്സഡ് ഡബിൾസും ഇൻസ് ഓഫ് കോർട്ടിലെ അത്താഴങ്ങളും പിക്കാഡിലി വേശ്യകളുമൊത്തുള്ള രാത്രികളും എന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ പ്രദേശം വിട്ട് ഇന്ത്യൻ മണ്ണിൽ തിരിച്ചെത്തിയ ശേഷം ഈ വശങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം വീണ്ടും സങ്കൽപ്പിക്കുന്നു ഈ ഘടനാപരമായ ചട്ടക്കൂടിൽ നിർമ്മിച്ചിരിക്കുന്ന സമാന്തരതകൾ നിങ്ങൾ നന്നായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഗ്രേ ബാഗുകളും ഗൌണുകളും സ്പോർട്സ് സ്ഥലങ്ങളും മിക്സഡ് ഡബിൾസും ഡിന്നറുകളും ഇൻസ് ഓഫ് കോർട്ടും പിക്കാഡിലി രാത്രികളും കാണാൻ കഴിയും അതിനാൽ ഈ പ്രത്യേക പ്രസ്താവനയിൽ ഒരു നല്ല സന്തുലിത പ്രവർത്തനം നടക്കുന്നുണ്ട് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന സമാന്തരതകളിലേക്ക് നമ്മൾ വീണ്ടും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ വീണ്ടും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ബാഗുകളും ഗൌണുകളും അത്താഴങ്ങളും വേശ്യകളും അവ വേർതിരിച്ചെടുത്ത ഘടകങ്ങളാണ് ഏതെങ്കിലും അർത്ഥത്തിൽ വ്യത്യസ്ത ഘടകങ്ങളാണ് അവ തിരഞ്ഞെടുത്ത് അവ ആസ്വദിക്കപ്പെടുന്നു ആ സാംസ്കാരിക സന്ദർഭത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേകമായി അത് നമ്മോട് എന്താണ് പറയുന്നത് അതിനാൽ ഈ ആഖ്യാനത്തിലും മോഹൻലാലിന്റെ മനസ്സിലും ധാരാളം സമന്വയമുണ്ട് അവൻ കാര്യങ്ങൾ അവരുടെ സന്ദർഭത്തിൽ നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ചില അർത്ഥത്തിൽ ചുവരിൽ നിന്ന് പുറത്തെടുക്കുകയും ഒറ്റപ്പെട്ട രീതിയിൽ നിങ്ങൾക്കറിയാവുന്ന തരത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ അത്തരമൊരു ആസ്വാദനത്തിന്റെ യുക്തിയും അനന്തരഫലങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സിനെക്ഡൊക്കി എന്താണ് സിനെക്ഡൊക്കി എന്നത് ഒരു സാഹിത്യ പ്രയോഗമാണ് അതിൽ എന്തിന്റെയെങ്കിലും ഒരു ഭാഗം അതിനെ മുഴുവനായും പ്രതിനിധീകരിക്കുന്നു അല്ലെങ്കിൽ മുഴുവനും ഭാഗത്തെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിച്ചേക്കാം ഇവയിലേതെങ്കിലും സാധ്യമാണ് അതിനാൽ ഈ വിഷയങ്ങളും കാര്യങ്ങളും നേരത്തെ എക്സ്ട്രാക്റ്റിൽ പരാമർശിച്ചിട്ടുള്ളവ മിക്സഡ് ഡബിൾസ് ടെന്നീസ് ഗെയിമുകളിലെ മിക്സഡ് ഡബിൾസ് അല്ലെങ്കിൽ പിക്കാഡിലി വേശ്യകൾ അല്ലെങ്കിൽ ഗൌണുകൾ എല്ലാം ഇംഗ്ലീഷ് സംസ്കാരത്തിന്റെ ചില ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്നു തൽഫലമായി അവ ഇംഗ്ലണ്ടിനെ തന്നെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ സർ മോഹൻലാൽന്റെ മനസ്സിൽ ഇംഗ്ലണ്ടിനായി വ്യത്യസ്ത വസ്തുക്കളും ചരക്കുകളും നിലകൊള്ളുന്നു അത് വളരെ വിചിത്രമാണ് അത് അസാധാരണമാണ് കാരണം അത് അവന്റെ മനസ്സ് ഏതെങ്കിലും അർത്ഥത്തിൽ തകർന്നിരിക്കുന്നുവെന്ന് നിങ്ങളോട് പറയുന്നു കൂടാതെ മനസ്സിന്റെ വിള്ളൽ അവൻ സ്വന്തം രാജ്യത്ത് നിന്ന് വേർപെടുത്തിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം വീണ്ടും സർ മോഹൻലാൽ ഇംഗ്ലണ്ടുമായി ബന്ധപ്പെടുത്തുകയും ഇന്ത്യൻ മണ്ണിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും സന്ദർശിക്കുകയും ചെയ്യുന്ന മറ്റ് ഭൌതികതയിലേക്ക് നോക്കാം ടൈംസ് പത്രം ടൈംസിനെക്കുറിച്ചുള്ള പരാമർശം കഥയിൽ വീണ്ടും വീണ്ടും വരുകയും അദ്ദേഹം അതിനെ ഒരുതരം ചൈതന്യരോപിതമാക്കുകയും ചെയ്യുന്നു ഇംഗ്ലീഷുകാരൻ പത്രം കണ്ടാൽ അവർ ഒരു തരത്തിൽ തന്റെ അടുത്തേക്ക് കൂട്ടമായി എത്തുമെന്നും അവിടെ നിന്ന് ഈ ഇംഗ്ലീഷുകാരുമായി ഒരു സംഭാഷണമോ സല്ലാപമോ നടത്താമെന്നും അദ്ദേഹം കരുതുന്നതിനാൽ ഒരു വിളക്കുമാടം പോലെ അദ്ദേഹം അത് വഹിക്കുന്നു അവൻ ചൈതന്യരോപിതമാക്കുന്ന മറ്റൊരു ഘടകം ബല്ലിയോൾ ടൈയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളിലൊന്നായ ബല്ലിയോൾ കോളേജിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഒന്നാണ് ബല്ലിയോൾ ടൈ ഈ വ്യതിരിക്തമായ വസ്തു ധരിക്കുകയും ടൈ ഒരു ബ്രിട്ടീഷ് മാന്യന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ രാജ്യത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾക്ക് വിടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ രസകരമായ മറ്റ് വിശദാംശങ്ങൾ ക്രോസ്സ് വേർഡ് ആണ് സർ മോഹൻലാൽ വളരെ ഇഷ്ടപ്പെടുന്ന ടൈംസ് പത്രത്തിലെ ക്രോസ്സ് വേർഡ് ഈ ആശയം വിശകലനം ചെയ്താൽ ഇത് ഒരു ആഖ്യാനമല്ല ഒരു മുഴുവൻ ആഖ്യാനമല്ല വിപുലീകൃത വിവരണമല്ല പക്ഷേ ഇത് വാക്കുകളുമായുള്ള ഒരുതരം ആലോചന കളിയാണ് അതിനാൽ ഒരു വലിയ ഭാഷാ വ്യവഹാരത്തിൽ നിന്ന് വാക്കുകളെ പുറത്തെടുക്കുക എന്ന ആശയം സർ മോഹൻലാലിന്റെ സ്വഭാവത്തിൽ പ്രതീകാത്മക സ്വാധീനം ചെലുത്തുന്നു അദ്ദേഹം ബ്രിട്ടനിലെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് വാക്കുകളും വസ്തുക്കളും ആളുകളെയും പുറത്തെടുക്കുകയും ഒറ്റപ്പെട്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു മോഹൻലാൽ സാറിന്റെ ഒരു വിചിത്രമായ ഇന്റീരിയർ ലോകമാണ് നമ്മൾ ഇതുവരെ അനുഭവിച്ചറിഞ്ഞത് ഈ ഘടനയുടെ ഈ ആന്തരിക മനഃശാസ്ത്രപരമായ ഘടനയുടെ ഒരു കാരണം ബ്രിട്ടനിൽ മിക്ക ഉയർന്ന വിഭാഗങ്ങൾക്കും ബ്രിട്ടീഷ് സമൂഹത്തിനും ലഭിക്കുന്ന അദ്ദേഹത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം മൂലമാകാം അതിനാൽ ഉന്നതവിദ്യാഭ്യാസം നേടുന്നതിനായി അവിടെ പോയ ഈ നാട്ടുകാരന്റെ മനസ്സിനെ ഈ ഉന്നത വിദ്യാഭ്യാസം വികലമാക്കുന്നു എന്നാണ് സൂചന ഈ പ്രത്യേക ഉദ്ധരണിയിലെ ചാരനിറത്തിന്റെ വർണ്ണ സന്ദർഭം വീണ്ടും വളരെ രസകരമാണ് കാരണം ചാരനിറത്തിന് ബ്രിട്ടീഷ് സംസ്കാരത്തിൽ ഒരു പ്രത്യേക അനുരണനമുണ്ട് അവ സങ്കീർണ്ണതയെക്കുറിച്ചാണ് അവ ഉയർന്ന വർഗ്ഗത്തെക്കുറിച്ചാണ് അവ ഇംഗ്ലീഷുകാരനാകുന്നതിനെക്കുറിച്ചാണ് മാത്രമല്ല ഇംഗ്ലീഷ് കാലാവസ്ഥ പോലും ഇവിടെ വളരെ ഉപരിപ്ലവമായ ഒരു കൂട്ടുകെട്ടുണ്ടാക്കുന്നു ഇംഗ്ലീഷിലെ കാലാവസ്ഥ ചാരനിറത്തിലായിരിക്കുമെന്ന് കരുതപ്പെടുന്നു ബ്രിട്ടനിൽ അത് എല്ലായ്പ്പോഴും മേഘാവൃതമാണ് ഇത് വ്യത്യസ്തമാണ് ഈ ചാരനിറത്തിലുള്ള സങ്കീർണ്ണത ശ്രേഷ്ഠത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അഴുക്കുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത സെഷനിൽ ഞാൻ നിങ്ങളെ കാണും